അപ്പോൾ ഇതിനെ ആണ് വാലിഡേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ബേസ്ഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ഒരു ഷെഡ്യൂളിൻറെ എല്ലാ ട്രാൻസാക്ഷനുകൾക്കും മൂന്ന് വ്യത്യസ്തമായ ഫെസുകൾ ഉണ്ട് ആദ്യത്തെ ഫേസിനെ റീഡ് ആൻഡ് എക്സിക്യൂഷൻ ഫേസ് എന്നാണ് പറയുന്നത് ഈ ഒരു ഫേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഷെഡ്യൂളിൽ ഉള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ഡേറ്റാബേസിൽ ഉള്ള വേരിയബിളുകളെ വായിക്കുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ എഴുതുന്നത് താത്കാലികമായിട്ടുള്ള മൂല്യങ്ങളെ ആയിരിക്കും ഈ ഡേറ്റാബേസിനുള്ളിൽ യഥാർത്ഥ ഡേറ്റാബേസ് മൂല്യങ്ങളെ ആയിരിക്കില്ല എഴുതുന്നത് അപ്പോൾ താൽക്കാലികമായ മൂല്യങ്ങളിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം വരുത്തുന്നത് അത് ഈ ട്രാൻസാക്ഷന്റെ ഒരു ഭാഗമാണ് ഷെഡ്യൂളിന്റെ ഒരു ഭാഗം അപ്പോൾ യഥാർത്ഥ ഡേറ്റാ ബേസിൽ ഒന്നും വ്യത്യാസം വരുത്തുന്നില്ല ഇത് താൽക്കാലികമായ വേരിയബിൾ ആണ് അത് പ്രധാനവും ആണ് രണ്ടാമത്തെ ഫെയിസിനെ നമ്മൾ വാലിഡേഷൻ ഫെയിസ് എന്നാണ് പറയുന്നത് ഇതിനെ നമ്മൾ വാലിഡേഷൻ ബെയ്സ്ഡ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് സംഭവികുന്നത് എന്നു വച്ചാൽ ഇത് എഴുതുന്നതിനെ പരിശോധിക്കുന്നു അത് റൈറ്റ് ഏക്സിക്യൂഷൻ ഫെയിസും റീഡ് ഫെയിസും കഴിഞ്ഞു പോകുന്നുണ്ടോ എന്നും നോക്കുന്നു അത് സീരിയലൈസിബിളിറ്റിയിൽ ലംഘനം വരുത്തുന്നില്ല ഇതിൽ വാലിഡേഷൻ ടെസ്റ്റുകൾ ഉണ്ട് അത് വേരിയബിളുകൾ എഴുതിയോ എന്നും എഴുതുന്നത് സീരിയലൈസിബിളിറ്റിയെ ലംഘിക്കില്ലാ എന്നും ട്രാൻസാക്ഷൻ സീരിയബിലിറ്റിയെ ലംഘിക്കില്ലാ എന്നും പരിശോധിക്കണം അപ്പോൾ എല്ലാ റൈറ്റുകളും ശരിയാണോ എന്ന് സീരിയലൈസിബിളിറ്റി അനുസരിച്ച് പരിശോധിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ഫെയിസിലെ ടെസ്റ്റ് ഇതാണ് അതു കൊണ്ടാണ് അതിനെ വാലിഡേഷൻ ഫെയ്സ് എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ ഫെയ്സിനെ റൈറ്റ് ഫേസ് എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ഫേയ്സിൽ രണ്ട് കാര്യങ്ങൾ നടക്കാം ഇപ്പോൾ ട്രാൻസാക്ഷൻ ഇവിടെ അതിനു സീരിയലൈസബിലിറ്റിയിൽ ലംഘനം വരുത്താതെ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നു അതിൽ ലംഘനം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഫേസിൽ ഇത് എഴുതുകയും ഡേറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ അപ്പോൾ എസ് വരികയാണെങ്കിൽ റൈറ്റുകളെ എല്ലാത്തിനെയും ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിന്റെ അർത്ഥം ടെമ്പററി വേരിയബിളുകളിൽ ഉള്ള എല്ലാ റൈറ്റുകളെയും നമ്മൾ ഡേറ്റാബേസിലേക്ക് കയറ്റുന്നു എന്നാണ് അതേസമയം സീരിയലൈസബിലിറ്റി ലംഘനത്തിന്റെ ഉത്തരം നോ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ട്രാൻസാക്ഷൻ മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് സീരിയലൈസബിലിറ്റിയിൽ ലംഘനം ഉണ്ടാകും എന്നാണ് അപ്പോൾ അത് മുന്നോട്ടു പോകുവാൻ പാടില്ല ഇത് റോൾബാക്ക് പോലെയാണ് അപ്പോൾ ട്രാൻസാക്ഷൻ റോൾബാക്ക് ചെയ്യണം അപ്പോൾ ഈ റോൾ ബാക്ക് എന്നതു കൊണ്ട് ഉദ്ദേശിക്കന്നത് ട്രാൻസാക്ഷൻ ഡേറ്റാ ബെസിൽ ഒന്നും എഴുതുവാൻ പാടില്ല എന്നാണ് അപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റാ ബെയിസിൽ ഒന്നും എഴുതുന്നില്ല അത് ടെംബററി വേരിയബിളിൽ മാത്രമാണ് എഴുതുന്നത് അപ്പോൾ റോൾ ബാക്ക് എന്നത്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ഡേറ്റാ ബെയിസിൽ റൈറ്റുകൾ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നവും റോൾ ബാക്ക് ഫെയിസിൽ വരുന്നില്ല ഇവിടെയുള്ള പ്രധാന കാര്യം എന്തെന്നാൽ ഇതെല്ലാം ശരിയാണ് എന്ന് അനുമാനിച്ച് ഇത് ആദ്യം എക്സ്സിക്യൂട്ട് ചെയ്യും അതിനു ശേഷം എല്ലാം ശരിയാണ് എന്ന അനുമാനം ശരിയാണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യും ഇത് വാലിഡ് ആണെങ്കിൽ വാലിഡേഷൻ ഫെയിസ് എസ്സ് എന്നു പറയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ശരിയാണ് എന്നാണ് അതിനുശേഷം ഇത് നേരെ ഡേറ്റാ ബെയിസിൽ എഴുതാൻ ചെല്ലും റൈറ്റുകൾ എല്ലാം ഡേറ്റാ ബെയിസിൽ അപ്ഡേറ്റ് ചെയ്യും ഇനി എല്ലാം വാലിഡ് അല്ലെങ്കിൽ ഇതിന് ഡേറ്റാ ബെയിസിൽ ഒന്നും എഴുതുവാൻ സാധിക്കുകയില്ല പക്ഷെ ഇത് നേരത്തെ ഒന്നും ഡേറ്റാ ബെയ്സിൽ എഴുതിയിട്ടില്ല ടെംബററി വേരിയബിളിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ ചില സമയങ്ങളിൽ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസ്സി കൺട്റോൾ പ്രൊട്ടോകോൾ എന്നു പറയും അതിനെ എന്തുകൊണ്ട് ഒപ്റ്റിമിസ്റ്റിക് എന്നു പറയുന്നു കാരണം ട്രാൻസാക്ഷനുകൾ യഥാർത്ഥത്തിൽ എല്ലാ ഓപ്പറേഷനുകളും ചെയ്യുന്നത് ഒരു പ്രതീക്ഷ വച്ചിട്ടാണ് അതായത് വാലിഡേഷൻ ഫെയിസ് വിജയകരമായി മുന്നോട്ടു പോകും എന്നുള്ള പ്രതീക്ഷ ഒന്നും തെറ്റായി വരില്ല എന്നുള്ളത് അതു കൊണ്ടാണ് ഇതിനെ ഒപ്റ്റിമിസ്റ്റിക് എന്നു പറയുന്നത് ഇവിടെ ട്രാന്സാക്ഷന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി 3 ടൈം സ്റ്റാമ്പുകളെ കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മൂന്ന് ടൈം സ്റ്റാമ്പുകളെ ആണ് വാലിഡേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഓരോ ട്രാൻസാക്ഷൻറെയും ഈ മൂന്ന് ടൈം സ്റ്റാമ്പ് എന്നത് അത് ആ ട്രാൻസാക്ഷൻറെ സ്റ്റാർട്ട് ടൈംസ്റ്റാമ്പ് ആണ് ഇതാണ് സ്റ്റാർട്ട് ടൈംസ്റ്റാമ്പ് രണ്ടാമത്തേത് വാലിഡേഷൻ ടൈം സ്റ്റാമ്പ് ആണ് ഇത് വാലിഡേഷൻ ഫെയ്സിൻറെ തുടക്കമാണ് ഇതാണ് ട്രാൻസാക്ഷന്റെ വാലിഡേഷൻ ഫെയിസിന്റെ തുടക്കം ഇതാണ് വാലിഡേഷൻ ടൈംസ്റ്റാമ്പ് ഇവിടെ ഒരു ഫിനിഷ് ടൈംസ്റ്റാമ്പും ഉണ്ട് അത് റൈറ്റ് ഫെയ്സിൻറെ അവസാനം കാണിക്കുന്നു അപ്പോൾ എല്ലാം ഡേറ്റാ ബെയിസിലേക്ക് പോയി എല്ലാം ശരിയാണെങ്കിൽ അത് ഡേറ്റ ബെയ്സിലേക്ക് പോയി ഇതാണ് T യുടെ തുടക്കം അതിനെ നമുക്ക് T യുടെ എക്സിക്യൂഷൻ ഫെയിസിന്റെ തുടക്കം എന്നും പറയാം അതായത് ഫസ്റ്റ് ഫെയിസ് ആണ് ഇത് അത് എക്സ്സിക്യൂഷന് തുല്ല്യമാണ് ഇതാണ് അപ്പോൾ ട്രാൻസാക്ഷൻ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി പ്രോട്ടാകോളിൽ അല്ലെങ്കിൽ വാലിഡേഷൻ ബെയ്സ്ഡ് പ്രോട്ടോകോളിൽ ഉപയോഗിക്കുന്ന 3 ടൈം സ്റ്റാമ്പുകൾ ട്രാൻസാക്ഷനുകൾക്ക് അപ്പോൾ ടൈംസ്റ്റാമ്പുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് വാലിഡേഷൻ ടൈംസ്റ്റാമ്പിന് വേണ്ടി കൊടുക്കുന്നു ആരെങ്കിലും ട്രാൻസാക്ഷന്റെ ടൈംസ്റ്റാമ്പിനെ കുറിച്ചു പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ട്രാൻസാക്ഷന്റെ വാലിഡേഷൻ ഫെയിസിന്റെ ടൈംസ്റ്റാമ്പ് എന്നാണ് അത് വാലിഡേഷൻ ടൈംസ്റ്റാമ്പിന് സമം ആണ് ഇനി ട്രാൻസാക്ഷനുകളിൽ എല്ലാം ശരിയാണെങ്കിൽ അതിനെ സീരിയലയിസ് ചെയ്യും അതു ചെയ്യുവാൻ വേണ്ടി വാലിഡേഷനെ ഉപയോഗിക്കും T എന്ന ടൈം സ്റ്റാമ്പിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് വാലിഡേഷൻ ടൈംസ്റ്റാമ്പ് ഉപയോഗിക്കുന്നതിന് സമമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഉദാഹരണത്തിന് ഷെഡ്യൂളിൽ രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ട് എന്ന് കരുതുക T 1 ഉം T 2 ഉം T 1 T 2 വിനേക്കാൾ മുന്നേ വാലിഡേഷൻ ഫെയിസിൽ കയറുന്നു അവിടെ ഒരു തെറ്റും ഇല്ലാ എന്നു കരുതുക അപ്പോൾ വാലിഡേഷൻ സ്റ്റെപ്പുകൾ ശരിയായ രീതിയിൽ നടക്കും അതിനുശേഷം ഷെഡ്യൂളിൽ ഉള്ള ട്രാൻസാക്ഷൻറെ സീരിയലൈസേഷൻറെ ക്രമം T1 നുശേഷം T2 ആയിരിക്കും കാരണം T1 ൻറെ വാലിഡേഷൻ ടൈംസ്റ്റാമ്പ് T2 ൻറെ വാലിഡേഷൻ ടൈംസ്റ്റാമ്പിന് മുൻപേ വന്നതാണ് അപ്പോൾ കൺകറൻസി എന്നിവയെ കൂട്ടും ഇത് ക്യാസ്കേട്ലെസ്സും ആണ് ഇത് ക്യാസ്കേട്ലെസ്സ് ആകുവാൻ ഉള്ള കാരണം ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടാൽ അത് വാലിഡേഷൻ ഫെയിസിൽ മുന്നോട്ടു പോകില്ല അപ്പോൾ അത് ഒന്നും എഴുതുകയില്ല ഇങ്ങനത്തെ ഒരു കേസ്സിൽ ഒന്നും റോൾ ബാക്ക് ചെയ്യുന്നില്ല അതാണ് ഈ ട്രാൻസാക്ഷന്റെ പ്രത്യേകത പക്ഷേ ഇത് സ്റ്റാർവേഷൻ അനുഭവിക്കും ഒരാൾ മനസ്സിക്കേണ്ടത് എന്തെന്നുവച്ചാൽ ഈ ഒരു ടൈംസ്റ്റാമ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി വാലിഡേഷനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ടൈംസ്റ്റാമ്പ് ബെയ്സ്ഡ് ഓർടറിങ്ങ് പ്രോട്ടോകോളുകളെ നമുക്ക് ഉപയോഗിക്കാം ടൈംസ്റ്റാമ്പ് ബെയ്സ്ട് ഓർട്ടറിങ്ങ് പ്രോട്ടോകോളിനെ പോലെയുള്ളവ വച്ച് നമുക്ക് സീരിയലൈസ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ സ്റ്റാർവേഷൻ സംഭവിക്കും ഇനി ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ ടൈംസ്റ്റാമ്പ് വച്ച് വീണ്ടും തുടങ്ങും അതിനെ വീണ്ടും പരിശോധിക്കണം അങ്ങനെ അങ്ങനെ വീണ്ടും ചിലപ്പോൾ അത് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ലാ എന്നു വരാം കാരണം വേറെ ട്രാൻസാക്ഷനുകൾ വീണ്ടും വീണ്ടും വന്നു കൊണ്ടിരിക്കാം ഇത് അപ്പോൾ വീണ്ടും തുടങ്ങി കൊണ്ടേയിരിക്കും അതുപൊലെ തന്നെ റോൾബാക്കും അല്ലെങ്കിൽ അബോർട്ടും ചെയ്തു കൊണ്ടെയിരിക്കും അതുകൊണ്ടാണ് ഇത് സ്റ്റാർവ് ആകുന്നത് സൈദ്ധാന്ധികമായി ഇവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകുന്നില്ല കാരണം രണ്ട് ട്രാൻസാക്ഷനുകളുടെയും ഇടയിൽ കർശനമായ ക്രമം ഈ ടൈംസ്റ്റാമ്പ് ബെയ്സ്ഡ് പ്രോട്ടോകോളുകളിൽ ഉണ്ട് അത് കാരണം ഡെഡ്ലോക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ നമുക്ക് കാണാം ഇവിടെ സ്റ്റാർവേഷൻ ഉണ്ടാകും എന്ന് ഇനി എന്താണ് വാലിഡേഷൻ ടെസ്റ്റിൽ നടക്കുന്നത് നമുക്ക് ഇനി വാലിഡേഷൻ ടെസ്റ്റിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ വാലിഡേഷൻ ഫെയിസ് എന്താണ് ചെയ്യുന്നത് നമ്മൾ വാലിഡേഷൻ ഫെയിസിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു ഇനി വാലിഡേഷൻ ടെസ്റ്റിൽ എന്താണ് ചെയ്യുന്നത് T i എന്ന ട്രാൻസാക്ഷൻ ഉണ്ടെന്നു കരുതുക അവിടെ രണ്ടു നിബന്ധനകൾ ആണ് ഉള്ളത് Tj എന്ന എല്ലാ ട്രാൻസാക്ഷനുകളിലും അത് നമ്മൾ പരിശോധിക്കുന്നു നമ്മൾ അപ്പോൾ ഇവിടെ കൂടുതൽ നോക്കുന്നത് ട്രാൻസാക്ഷൻ Ti യുടെയും Tj എന്ന എല്ലാ ട്രാൻസാക്ഷനുകളുടെയും കാര്യങ്ങൾ ആണ് Tj യുടെ ടൈംസ്റ്റാമ്പ് Ti യെക്കാളും ചെറുതായിരിക്കണം അതിന്റെ അർത്ഥം ഈ രണ്ടു കാര്യങ്ങൾക്ക് മുൻപ് തുടങ്ങിയ എല്ലാ ട്രാൻസാക്ഷനുകളെയും നമ്മൾ പരിശോധിച്ചു എന്നാണ് ആദ്യത്തെ കാര്യം Tj യെ പൂർത്തിയാക്കി എന്നുള്ളതാണ് അത് Ti യെക്കാൾ ചെറുത് ആയതു കൊണ്ട് നമ്മൾ അതിനെ ആദ്യം പരിശോധിക്കുന്നു രണ്ടാമത്തെ പരിശോധന എന്നത് Tj യെ Ti യുടെ വാലിഡേഷൻ ഫെയിസിന് മുന്നേ പൂർത്തിയാക്കണം എന്നതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത് റീഡ് സെറ്റ് നമ്മൾ നേരത്തെ റീഡ് സെറ്റിനെ പറ്റി പറഞ്ഞിരുന്നു ഞാൻ അത് ഇവിടെ എഴുതുകയാണ് ഇനി Ti യുടെ റീഡ്സെറ്റ് Tj യുടെ റീഡ് സെറ്റുമായി ഡിസ്ജോയിന്റ് ആണ് ഈ രണ്ടു നിബന്ധനകളും ശരിയായി വരുകയാണെങ്കിൽ വാലിഡേഷൻ മുന്നോട്ടു പോകും ഇതിലെ ഏതെങ്കിലും നിബന്ധന ശരിയാണ് എന്നു വരുകയാണ് എങ്കിൽ വാലിഡേഷൻ ഫെയിസ് എസ് എന്നു പറയും അല്ലെങ്കിൽ നോ എന്നാകും ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ഈ രണ്ട് നിബന്ധനകളെയും ഒന്നായി നോക്കാം നമ്മൾ ഇവിടെ ആകുലപ്പെടുന്നത് Ti യുടെ ട്രാൻസാക്ഷൻറെ കാര്യത്തിലാണ് Tj എന്ന എല്ലാ ട്രാൻസാക്ഷനുകളും നമ്മൾ നോക്കുന്നു ഒരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമല്ല ഈ Tj യുടെ ടൈംസ്റ്റാമ്പ് Ti യുടെ ടൈംസ്റ്റാമ്പിനേക്കാൾ മുൻപേ വന്നത് ആണ് അതിനെ കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടുന്നത് അത് Ti തുടങ്ങുന്നതിനു മുൻപേ തന്നെ പൂർത്തി ആവേണ്ടത് ആണ് ഇനി Tj Ti തുടങ്ങുന്നതിനു മുൻപേ പൂർത്തിയായാൽ എന്തു സംഭവിക്കും അങ്ങനെ വരുമ്പോൾ Tj എല്ലാ കാര്യങ്ങളും ഡേറ്റ ബെയിസിൽ എഴുതുകയാണ് ഇനി Ti Tj ക്ക് ശേഷം തുടങ്ങുകയാണെങ്കിൽ എല്ലാത്തിനെയും വാലിഡേറ്റ് ചെയ്ത് ഒരു തെറ്റും ഇല്ല എന്നു പറയുന്നു കാരണം Tj Ti യെക്കാൾ മുൻപേ പൂർത്തിയാകേണ്ടതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൂടുതൽ എളുപ്പമാണ് വാലിഡേഷൻ എന്തുകൊണ്ടാണ് ശരിയായത് എന്ന് അതിനുശേഷം രണ്ടാമത് നിബന്ധന എന്നത് T J വാലിഡേഷനു മുൻപേ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ടു കാര്യങ്ങൾ ആണ് നടക്കുന്നത് Tj വാലിഡേഷനു മുൻപേ പൂർത്തിയാകുന്നു പക്ഷെ Ti യുടെ വാലിഡേഷന് മുൻപേ ആണ് അത് Ti ഫെയിസ് എന്താണ് Ti യുടെ റീഡ് ഫെയിസിന്റെ എക്സ്സിക്യൂഷൻ ആണ് അതിനർത്ഥം Ti ഡേറ്റാ ബെയിസിൽ നിന്നും കുറച്ചു വേരിയബിളുകളെ വായിക്കുകയും താൽകാലികമായിട്ടുള്ള പകർപ്പുകൾ എഴുതുകയും ചെയ്യുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ വായിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുവച്ചാൽ x എന്ന ഐറ്റത്തെ ഉദാഹരണമായി എടുക്കുക Ti x നെ വായിക്കുന്നു ഇനി ഇങ്ങനെ സംഭവിക്കാം അതായത് Tj ആണ് x നെ എഴുതേണ്ടിയിരുന്നത് എന്നിട്ട് Tj x നെ Ti ക്ക് ശേഷം എഴുതുകയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നു അല്ലേ അപ്പോൾ ഇവിടെ പറയുവാൻ സാധിക്കുകയില്ല ഇത് വാലിഡേറ്റ് ആയി എന്ന് കാരണം Tj ഇത് എഴുതിയപ്പോൾ ഇത് നന്നായിട്ടു വന്നില്ല പക്ഷേ ഈ നിബന്ധന പറയുന്നത് എന്താണെന്നു വച്ചാൽ Ti യുടെ റീഡ് സെറ്റ് Tj യുടെ റീഡ് സെറ്റുമായി ഡിസ്ജോയിന്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം Ti x നെ ഡേറ്റാ ബെയ്സിൽ നിന്നും വായിക്കുകയാണെങ്കിൽ Tj x ലോട്ട് എഴുതുകയില്ല എന്നാണ് അപ്പോൾ Tj ഡിസ്ജോയിൻറ് ആണ് അതിൻറെ അർത്ഥം അവ ഒന്നും പങ്കുവയ്ക്കുന്നില്ല എന്നാണ് അപ്പോൾ Ti x നെ വായിച്ചു കഴിഞ്ഞാൽ Tj x നെ എഴുതില്ല എന്നാണ് Ti ചില വേരിയബിൾ ആയ y യെ വായിക്കുകയാണെങ്കിൽ Tj y എഴുതില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അവ ഡിസ്ജോയിൻറ് ആയത് അപ്പോൾ അതിൻറെ അർത്ഥം Ti y യെ വായിക്കുന്നത് ശരിയാണ് എന്നതാണ് കാരണം ഇതിനുമുൻപ് ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല എഴുതുന്നതിനു മുൻപേ വായിക്കാൻ ആയിട്ട് ഒരു ട്രാൻസാക്ഷനും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇത് ശരിയാണ് അതുകാരണമാണ് നിബന്ധന പൂർത്തിയായിട്ടുണ്ടെങ്കിലും വാലിഡേഷൻ ശരിയായി വരുന്നത് അതിനാൽ വാലിഡേഷൻ യെസ് എന്ന് വരുന്നു അപ്പോൾ ഈ രണ്ടു നിബന്ധനകളും വാലിഡേഷൻ മുന്നോട്ടു പോകുവാൻ പാലിക്കേണ്ടിവരും നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമിപ്പിക്കുന്നു ഇത് എല്ലാ Tj കൾക്കും ബാധകമാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ T3 യുടെ കാര്യത്തിൽ ആകുലപ്പെടുന്നു എന്നു കരുതുക ഈ T3 ക്കു മുന്നേ ട്രാൻസാക്ഷനുകളായ T 1 ഉം T2 ഉം ഉണ്ട് ഈ ഓരോ ട്രാൻസാക്ഷനുകളിലും നിബന്ധന ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഉണ്ടായിരിക്കണം T1 ലും T2 വിലും ചിലപ്പോൾ T1 ൽ നിബന്ധന ഒന്നായിരിക്കും ഉണ്ടാകുക T2 ൽ രണ്ടായിരിക്കും ഉണ്ടാകുക അതിൽ പ്രശ്നം ഇല്ല T 1 ഉം T 2 ഉം ഇതിൽ ഏതെങ്കിലും ഒരു നിബന്ധന കൈവശപ്പടുത്തിയിരിക്കണം അങ്ങനെ വരുമ്പോൾ വാലിഡേഷൻ ടെസ്റ്റ് ശരിയായി മുന്നോട്ടു പോകും ഇനി ഇതിൽ നിന്നും വരുന്നത് എന്താണെന്നു വച്ചാൽ ഈ നിബന്ധനകൾ എല്ലാം വരുകയാണെങ്കിൽ ഇത് ഒരു സീരിയൽ ആണ് അതിന്റെ അർത്ഥം T j പുർത്തിയാകുന്നു അതിനു ശേഷം Ti തുടങ്ങുന്നു അപ്പോൾ ഇത് ഒരു സീരിയൽ ആയി മാറുന്നു രണ്ടാമത്തെ നിബന്ധന പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ Ti യുടെ റീഡ് Tj യുടെ റൈറ്റിനെ ബാധിക്കുന്നില്ല എന്നാണ് അപ്പോൾ അവിടെ ഒരു സംഘർഷം വരുന്നില്ല ഇത് രണ്ടും ശരിയാണ് എന്ന് വരും ഇതാണ് ഈ വാലിഡേഷൻ ടെസ്റ്റിൻറെ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് വാലിഡേഷൻ ടെസ്റ്റ് നടത്തുന്നത് അങ്ങനെയാണ് വാലിഡേഷൻ ബേസ്ഡ് പ്രോട്ടോകോൾ കൺകറൻസി ബേസ്ഡ് പ്രോട്ടോകോൾ മുന്നോട്ടുപോകുന്നത്